നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ എട്ടാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ലെക്ച്ചറുകളിലായി ECM ശൃംഖലകളുടെ മെക്കാനിക്കലായ സവിശേഷതകൾ കോശങ്ങളുടെ മറ്റ് സുപ്രധാന പ്രതികരണങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്നതിൽ റിയോളജി പഠനങ്ങൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് വളരെ വിശദമായി തന്നെ നമ്മൾ ചർച്ച നടത്തിയിരുന്നതാണ് കൊളാജെൻ പോലുള്ള ബയോപോളിമർ ശൃംഖലകളിൽ നാം തീർച്ചയായും പരിചയപ്പെടേണ്ട ഏറ്റവും പരമപ്രധാനമായ ഒരു പദമാണ് സ്ട്രെങ്ത് സ്റ്റിഫെനിങ് അതിരൂക്ഷമായ ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ സംയോജിത കോശങ്ങളിലും മറ്റ് സുപ്രധാന ശൃംഖലകളിലും സംഭവിക്കാനിടയുള്ള കേടുപാടുകൾ പ്രതിരോധിക്കാൻ ഉതകുന്ന സ്വതസിദ്ധമായ ഒരു സവിശേഷതയാണിത് ഗണ്യമായ നിരക്കിൽ ദൃഢതയുള്ള ഒരു വസ്തുവിൽ ഡിഫോർമേഷൻ സാധ്യമാകുക പ്രയാസമാണെന്ന് സാരം ഒരു സിംഗിൾ പ്രോട്ടീനിന്റെ നിലവാരത്തിലേക്ക് നോൺ ലീനിയർ ഇലാസ്റ്റിസിറ്റി എന്ന പ്രക്രിയ പ്രയോഗികമാക്കുവാൻ ഉതകുന്ന മറ്റൊരു പ്രധാന മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിനോടൊപ്പം നമ്മൾ ഫൈബ്രോനെക്റ്റിൻ എന്ന പ്രോട്ടീനുകളെ കുറിച്ചും വിശദമായി പഠനം നടത്തുന്നതായിരിക്കും ECM പ്രോട്ടീനുകളിൽ പ്രധാനിയാണ് ഫൈബ്രോനെക്റ്റിൻ സമാനമായ രണ്ട് പോളിപെപ്റ്റൈഡുകൾ ഡൈ സൾഫൈഡ് ബോണ്ട് ഉപയോഗപ്പെടുത്തി ഡൈമർ രൂപപെടുമ്പോഴാണ് നാം അതിനെ ഫൈബ്രോനെക്റ്റിൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഇന്റെഗ്രിനുമായി ചേർന്ന് കോശങ്ങളിൽ മെട്രിക്സ് എഡ്ഹെഷൻ സാധ്യമാകുന്ന RGD സീക്വൻസുകൾ ഇവയിൽ ദൃശ്യമാണ് എന്നത് കൌതുകകരമായ ഒരു വസ്തുതയാണ് കൊളാജെൻ പ്രോട്ടിയോഗ്ലൈക്കൻ പോലുള്ള ഒട്ടനേകം ECM പ്രോട്ടീനുകളുമായി സംബന്ധിക്കാൻ ഇവയ്ക്ക് കെൽപ്പുണ്ട് എന്നതാണ് വാസ്തവം കോശങ്ങളുടെ മൈഗ്രേഷൻ ഡിഫറെൻസിയേഷൻ വൂണ്ട് ഹീലിംഗ് പോലെയുള്ള സുപ്രധാന പ്രക്രിയകളിൽ ഇവ സുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് മേല്പറഞ്ഞ ഫൈബ്രോനെക്റ്റിന്റെ ഒരു ഏകദേശ രൂപഘടന ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് ഘടനാപരമായി പ്രധാനപ്പെട്ട മൂന്ന് മോഡ്യൂളുകളും അതിന്റെ അറ്റത്തായി ഇത്തരത്തിലൊരു ഡൈ സൾഫൈഡ് ബോണ്ടും സദൃശ്യമാണ് ഇവ വീണ്ടും പുനരാവർത്തിക്കുന്നതായി നമുക്ക് കാണാനാകും ഈ കാണുന്ന FN 3 എന്ന മോഡ്യൂളിൽ സ്വമേധയാ ഫോൾഡ് ചെയ്യപ്പെട്ട 15 വ്യക്തിഗത ഡൊമെയ്നുകൾ ദൃശ്യമാണ് നേരത്തെ സൂചിപ്പിച്ച 15 ഡൊമെയ്നുകളിൽ പത്താമത്തെ ഡൊമെയ്നിലാണ് RGD ബൈൻഡിങ് സൈറ്റുകൾ പ്രവർത്തിക്കുന്നത് അതായത് മേല്പറഞ്ഞ RGD സീക്വൻസുകൾ ഇവയുടെ ഘടനയ്ക്കകത്ത് തന്നെ നിഗൂഹനം ചെയ്യപ്പെട്ട രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് മറയ്ക്കപ്പെട്ട നിലയിൽ തുടരുന്ന RGD സീക്വൻസുകളുമായി നേരിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ഇന്റെഗ്രിനുകൾക്ക് സാധ്യമല്ല എന്നതാണ് വാസ്തവം അക്ഷരാർത്ഥത്തിൽ ഫൈബ്രോനെക്റ്റിനുകളുടെ ഘടനയിൽ ഒരു തരത്തിലുള്ള അൺ ഫോൾഡിങ് സാധ്യമാകുകയും അതിലൂടെ RGD മോട്ടിഫ് അനാവരണം ചെയ്യപ്പെടുകയും ചെയ്താൽ മാത്രമേ ഇവയുടെ ബൈൻഡിങ് സൈറ്റുമായി ബന്ധപ്പെടുവാൻ ഇന്റെഗ്രിനുകൾക്ക് കഴിയുകയുള്ളു യൂറിയ ഉപയോഗിച്ചുള്ള രാസപ്രയോഗം കൊണ്ടോ അല്ലെങ്കിൽ താപനിലയിൽ ഭേദഗതി വരുത്തുന്നതിലൂടെയോ പ്രോട്ടീനുകളെ ഡീനേച്ചർ ചെയ്ത് അൺ ഫോൾഡിങ് സാധ്യമാക്കാമെന്ന് ബയോകെമിസ്ട്രി പഠനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് എപ്രകാരമാണ് ഇവയിൽ ഇൻ വൈവോ ആയി അൺ ഫോൾഡിങ് സാധ്യമാകുന്നത് നിയതമായ ഫോഴ്സുകളുടെ പ്രഭാവത്തിൽ വ്യക്തിഗത മോഡ്യൂളുകളുടെ അനാവരണം സംഭവിക്കുകയും അതിലൂടെ ഒളിഞ്ഞിരിക്കുന്ന ബൈൻഡിങ് സൈറ്റുകൾ അനാവൃതമാകുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന മേല്പറഞ്ഞ അൺ ഫോൾഡിങ് പ്രക്രിയയിലൂടെ ക്രിപ്റ്റിക് ബൈൻഡിങ് സൈറ്റുകൾ അനാച്ഛാദനം ചെയ്യപ്പെടുകയും അതിലൂടെ FN 3 മോഡ്യൂളുകൾക്ക് മറ്റ് രാസതന്മാത്രകളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധ്യമാകുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത മേല്പറഞ്ഞ അൺ ഫോൾഡിങ് എന്ന പ്രക്രിയ എങ്ങനെയാണ് സംഭവ്യമാകുന്നത് മെക്കാനിക്കലായ ഫോഴ്സുകളുടെ പ്രഭാവത്തിൽ നിഗൂഹനം ചെയ്യപ്പെട്ട സൈറ്റുകൾ അനാവൃതമാകുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവ ഉയർത്തുന്ന സാധ്യതകൾ ഏറെ വലിയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു FN 3 മോഡ്യൂൾ ഉണ്ടെന്ന് കരുതുക നേരത്തെ സൂചിപ്പിച്ചത് പോലെ 1 2 3 എന്നിങ്ങനെ 15 വരെയുള്ള ഡൊമെയ്നുകളിൽ പത്താമത്തെ ഡൊമെയ്നിലാണ് RGD MOTIF സ്ഥിതിചെയ്യുന്നത് ഒരേ തന്മാത്രയിൽ തന്നെ വേറിട്ട തോതിൽ നിയതമായ ഫോഴ്സ് ചെലുത്താൻ കെൽപ്പുള്ള മൂന്ന് വ്യത്യസ്തയിനം കോശങ്ങളുണ്ടെന്ന് സങ്കൽപ്പിക്കുക അവ പ്രയോഗിക്കുന്ന ഫോഴ്സിന്റെ പ്രഭാവത്തിൽ ഒരു പക്ഷെ ഒന്നോ അതിലധികമോ സൈറ്റുകൾ അനാവരണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ മേല്പറഞ്ഞ കോശങ്ങൾ ചെലുത്തുന്ന ഫോഴ്സിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അനാച്ഛാദനം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ബൈൻഡിങ് സൈറ്റുകളുടെ എണ്ണത്തിലും വർദ്ധനവുണ്ടാകും എന്നതാണ് വസ്തുത മേല്പറഞ്ഞ ക്രിപ്റ്റിക് സൈറ്റുകൾ അനാവരണം ചെയ്യപ്പെടുന്നതിലൂടെ അവയ്ക്ക് മറ്റ് രാസതന്മാത്രകളുമായി ബന്ധിക്കാനും അതിലൂടെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ കാസ്കേഡ് ത്വരിതപ്പെടുത്തുവാനും സാധിക്കും അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സുകളുടെ തീവ്രത മേല്പറഞ്ഞ സിഗ്നലിങ് കാസ്കേഡുകൾ ത്വരിതപ്പെടുത്തുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് വസ്തുത നിയതമായ ഫോഴ്സിന്റെ പ്രഭാവത്തിൽ വ്യക്തിഗത ഡൊമെയ്നുകളുടെ സംവേദനക്ഷമത തിട്ടപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി താപനിലയിൽ ഭേദഗതി വരുത്തി ഏതാനും ചില ഡീനേച്ചറേഷൻ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഉദാഹരണത്തിന് FN 3 യുടെ മൂന്നാമത്തെ ഡൊമെയ്ൻ 1200 സെൽഷ്യസിലാണ് ഡീനേച്ചർ ചെയ്യപ്പെടുന്നത് എന്നാൽ ഇതുമായി താദാത്മ്യം പുലർത്തുമ്പോൾ FN 3 യുടെ ആറാമത്തെ ഡൊമെയ്ൻ 1110 സെൽഷ്യസിൽ ഡീനേച്ചർ ചെയ്യപ്പെടുന്നതായാണ് നമുക്ക് കാണാനാകുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി RGD ബൈൻഡിങ് സൈറ്റുകളുള്ള FN 3 യുടെ പത്താമത്തെ ഡൊമെയ്ൻ താപനില 1020 സെൽഷ്യസിനോട് അടുക്കുമ്പോഴാണ് അൺ ഫോൾഡ് ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്നും വിഭിന്നമായി FN 3 യുടെ ഏറ്റവും ദുർബ്ബലമായ പതിനൊന്നാമത്തെ ഡൊമെയ്നാകട്ടെ ഏതാണ്ട് 480 സെൽഷ്യസിലാണ് ഡീനേച്ചർ ചെയ്യപ്പെടുന്നത് ഇതുപോലെ എല്ലാ ഡൊമെയ്നുകൾക്കും നിയതമായ ഒരു സംവേദനക്ഷമത പ്രകടമാണ് എന്നതാണ് സാരം ഉയർന്ന താപനിലയിൽ മാത്രം അൺ ഫോൾഡ് ചെയ്യുന്ന ഒരു ഡൊമെയ്ൻ താരതമ്യേന മറ്റുള്ളവയിൽ നിന്നും അല്പം കൂടി സ്ഥിരതയുള്ളതായിരിക്കും ആയതിനാൽ ഇതുവരെ ചർച്ച ചെയ്ത ഡൊമെയ്നുകളിൽ നിന്നും വിഭിന്നമായി മൂന്നാമത്തെ ഡൊമെയ്ൻ വളരെയധികം സംഘടിതമായി ഫോൾഡ് ചെയ്ത ഒന്നാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും ചർച്ച ചെയ്തതിൽ ഉൾപ്പെട്ട പതിനൊന്നാമത്തെ ഡൊമെയ്നാണ് ഏറ്റവും ദുർബ്ബലമായ രീതിയിൽ ഫോൾഡ് ചെയ്യപ്പെട്ടത് എന്നും ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ഇതൊരു പ്രഹേളികയാണ് കാരണം താപനിലയിൽ പ്രകടമാകുന്ന ഉയർച്ച താഴ്ച്ചകൾക്ക് ആധാരമായുള്ള ഡീനേച്ചറഷൻ എന്നത് ഫോഴ്സുകളുടെ സ്വാധീനമുണ്ടാകുന്ന ഇൻ വൈവോ അവസ്ഥകളിൽ ഇതേ രീതിയിൽ തന്നെ പ്രതിഫലിക്കുമെന്നതിന് എന്താണ് ഒരു ഉറപ്പ് മേല്പറഞ്ഞ അൺ ഫോൾഡിങ് പ്രക്രിയയുടെ ചലനാത്മകമായ സ്വഭാവവൈഭവങ്ങളെ കുറിച്ച് മനസിലാക്കുവാൻ ഉതകുന്ന ഒരു സംവിധാനം നിലവിൽ പ്രയോഗത്തിലുണ്ട് ഇവ ഒരു പൂർണ്ണ തന്മാത്രയുടെ സ്ഥിതി വിശേഷങ്ങളെ പറ്റിയും മാത്രമല്ല വ്യക്തിഗത ഫോൾഡഡ് ഡൊമെയ്നുകളുടെ കരുത്തിനെ കുറിച്ചും ഗണ്യമായ വിവരണം നല്കാൻ പ്രാപ്തിയുള്ളവയാണ് വിവിധയിനം പ്രോട്ടീനുകളിൽ കാണപ്പെടുന്ന അൺ ഫോൾഡിങ് എന്ന പ്രക്രിയയുടെ ചലനാത്മകതയെ കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തുന്നതിനായി പ്രചാരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി അഥവാ AFM അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഇമേജിങ് ടൂളായിട്ടാണ് പ്രയോഗത്തിൽ വന്നതെങ്കിലും ഇമേജിങിന് പുറമെ മറ്റ് നൂതന സാങ്കേതിക മേഖലകളിലും ഒട്ടനേകം ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിൽ വിജയം നേടിയ ഒരു കണ്ടുപിടുത്തമാണിത് ഉദാഹരണത്തിന് കോശങ്ങളുടെയും സംയോജിത കലകളുടെയും മെക്കാനിക്കലായ സവിശേഷതകൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു ഉത്തമ ഉപാധി കൂടിയാണിത് മാത്രമല്ല കോശങ്ങളിൽ പ്രകടമാകുന്ന അൺ ഫോൾഡിങ് എന്ന പ്രക്രിയയെ അടിസ്ഥാനപ്പെടുത്തി പഠനങ്ങൾ നടത്തുവാനും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു AFM ൽ എന്തെല്ലാം കാണപ്പെടുന്നു എപ്രകാരം ഇവ പ്രവർത്തന സജ്ജമാക്കാമെന്നും നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാവുന്നതാണ് ഞാനിവിടെ AFM ന്റെ ഒരു രേഖാചിത്രം വരയ്ക്കുകയാണ് ഇതെല്ലം ടിപ്പുകളാണ് ഈ കാണുന്നതാണ് AFM ക്യാന്റിലിവർ ഇതിനെ നമ്മൾ AFM ടിപ്പെന്നാണ് വിശേഷിപ്പിക്കുന്നത് മേല്പറഞ്ഞ ടിപ്പുകൾക്ക് ഈ കാണുന്നത് പോലെ വ്യത്യസ്തതരം ജ്യാമിതീയ ആകൃതികൾ കൈകൊള്ളാവുന്നതാണ് വളരെയധികം കൂർത്തതും ചിലപ്പോൾ മുനയില്ലാത്തതുമായ ടിപ്പുകളും പ്രചാരത്തിൽ സുലഭമാണ് അതുപോലെ തന്നെ ചില ടിപ്പുകൾ ആകൃതിയിൽ പന്ത് പോലെ ഉരുണ്ടതായും ഉണ്ടാകാനിടയുണ്ട് മറ്റ് ഘടകങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ടിപ്പുകളുടെ ജ്യാമിതിയും മേൽ സൂചിപ്പിച്ച ഓരോ ആകൃതികളിലും ഈ കാണുന്ന ഹാഫ് ആംഗിൾ വിഭിന്നമായിരിക്കും എന്നതാണ് വസ്തുത മുനയുള്ള കൂർത്ത ടിപ്പുകളാണ് സർവ്വ സാധാരണമായി ഇമേജിങിനും മറ്റ് അൺ ഫോൾഡിങ് പ്രക്രിയയുടെ പഠനങ്ങൾക്കും പ്രയോജനപ്പെടുക എന്നാൽ ഈ കാണുന്ന മുനയില്ലാത്ത ടിപ്പുകളാകട്ടെ കൂടുതലായും മൃദു കോശങ്ങളുടെയും സംയുക്ത കലകളുടെയും മെക്കാനിക്കലായ സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നതിനായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇവയിൽ നിന്നെല്ലാം വിഭിന്നമായി ഉരുണ്ട ടിപ്പുകളാകട്ടെ തീർത്തും ലോലവും അതിമൃദുലവുമായ സാംപിളുകളിൽ പഠനം നടത്താൻ ഉതകുന്നവയാണ് മേല്പറഞ്ഞ രീതിയിലുള്ള ക്യാന്റിലിവർ ടിപ്പുകളുടെ ജ്യാമിതീയ ആകൃതികളിൽ നിന്നും അവയുടെ നിയതമായ ദൃഢതയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട് എന്ന് സാരം ഇവയ്ക്ക് നിയതമായ ദൃഢതയും സ്പ്രിങ് കോൺസ്റ്റന്റുമുണ്ട് മേല്പറഞ്ഞ ക്യാന്റിലിവറിന്റെ നീളത്തിൽ വ്യതിയാനം വരുത്തുന്നതിലൂടെ സ്പ്രിങ് കോൺസ്റ്റന്റിന്റെ നിരക്കിലും വ്യക്തമായ മാറ്റം പ്രകടമാകുന്നതായി നമുക്ക് കാണാനാകും ക്യാന്റിലിവറിന്റെ നീളത്തിൽ ഗണ്യമായ വർദ്ധനവുണ്ടാകുമ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റിന്റെ നിരക്കിലും അത് പ്രതിഫലിക്കുന്നു ആയതിനാൽ സ്പ്രിങ് കോൺസ്റ്റന്റിന്റെ മൂല്യം 10 മുതൽ 20 പൈക്കോന്യൂട്ടൺ പെർ നാനോമീറ്റർ Piconewtonnanometer ശ്രേണിയിൽ വന്നാൽ മാത്രമേ നമുക്ക് പ്രോട്ടീനുകളുടെ അൺ ഫോൾഡിങ് പഠനങ്ങൾ സാധ്യമാകൂ കാരണം പ്രോട്ടീൻ ഡൊമെയ്നുകളുടെ അൺ ഫോൾഡിങ് എന്ന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഫോഴ്സിന്റെ നിരക്കെന്നത് ഏതാണ്ട് പതിനായിരക്കണക്കിന് പൈക്കോന്യൂട്ടൺ എന്ന ക്രമത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മേല്പറഞ്ഞ ക്യാന്റിലിവറിന്റെ പ്രവർത്തനം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഈ കാണുന്നതാണ് AFM ടിപ്പ് ഇതിന്റെ പിൻവശം വളരെ മിനുത്തതാണ് ഈ കാണുന്ന ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ലേസർ ഇവിടെയുണ്ട് മേല്പറഞ്ഞ ലേസറിൽ നിന്നും പുറത്തുവിടുന്ന പ്രകാശരശ്മികൾ ക്യാന്റിലിവറിന്റെ പിൻവശത്തായി കേന്ദ്രീകൃതമാകുകയും അവിടെ നിന്നും തിരിച്ച് പ്രതിഫലിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം പ്രതിഫലിക്കപ്പെട്ട രശ്മികളെ ഒരു ഫോട്ടോ ഡയോഡ് അഥവാ ഫോട്ടോ ഡിറ്റക്ടറിന്റെ സഹായത്താൽ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഈ കാണുന്ന ഗ്ലാസ്സിനെ ഒരു പ്രതലമായി കണക്കാക്കി നമ്മൾ ടിപ്പ് ഉപയോഗിച്ച് പ്രോബ് ചെയ്യുകയാണെന്ന് കരുതുക ഈ കാണുന്ന ടിപ്പ് വായുവിലൂടെ നീങ്ങുകയാണെന്ന് ധരിക്കുക ഇതൊരു വരണ്ട ദൃഢതയുള്ള പ്രതലമാണ് ഉദാഹരണത്തിന് ബയോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ കവർ സ്ലിപ് തന്നെയെടുക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ടിപ്പ് വായുവിലൂടെ നീങ്ങുമ്പോൾ അതിന്റെ ഘടനയിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും പ്രകടമാകുന്നില്ല എന്നാൽ അവ ഈ കാണുന്ന പ്രതലത്തിൽ ഉരസുമ്പോൾ ടിപ്പിൽ ഘടനാപരമായി നിയതമായ മാറ്റം പ്രകടമാകുന്നുണ്ട് എന്നതാണ് വസ്തുത ഈ കാണുന്ന പ്രതലത്തിൽ വന്ന് മുട്ടുന്നതോട് കൂടി ടിപ്പിൽ ഡിഫോർമേഷൻ ഉടലെടുക്കുന്നു മേല്പറഞ്ഞ ഘടനയിൽ പ്രകടമാകുന്ന വൈകല്യമാണ് അക്ഷരാർത്ഥത്തിൽ ഫോട്ടോ ഡിറ്റക്ടർ കണ്ടെത്തുന്നതും വോൾട്ടിൽ രേഖപ്പെടുത്തുന്നതും ഇൻവേഴ്സ് ഒപ്റ്റിക്കൽ ലിവർ സെൻസിറ്റിവിറ്റി എന്ന വിദ്യയുടെ സഹായത്താൽ മാത്രമേ ഡിഫ്ലെക്ഷന്റെ നിരക്കിനെ വോൾട്ടിൽ നിന്നും നാനോമീറ്ററിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്ന ഇലക്ട്രിക്ക് സിസ്റ്റം എല്ലാ നിരക്കുകളും വോൾട്ടിലാണ് രേഖപ്പെടുത്തുന്നത് ഇൻവേഴ്സ് ഒപ്റ്റിക്കൽ ലിവർ സെൻസിറ്റിവിറ്റി ഉപയോഗപ്പെടുത്തി നമുക്കതിനെ ഇൻവോൾസിലേക്ക് തിട്ടപ്പെടുത്താവുന്നതാണ് വോൾട്ടിൽ ലഭ്യമാകുന്ന തുകയെ നാനോമീറ്ററിലേക്ക് ഗണിക്കാനായാൽ നമുക്ക് ഡിഫ്ലെക്ഷന്റെ മൂല്യം കണ്ടെത്താനാവുന്നു എന്ന് സാരം അതുപോലെ തന്നെ ടിപ്പിന്റെ സ്ഥാനചലനം വ്യക്തമായി മനസ്സിലാക്കുവാൻ പീസോ എന്നാണൊരു മാദ്ധ്യമം കൂടി ഇവിടെയുണ്ട് ഇവിടെ z ആക്സിസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന z പീസോ യഥാർത്ഥത്തിൽ ടിപ്പിന്റെ സ്ഥാനം ഗണിക്കാൻ കഴിവുള്ള ഒന്നാണ് ഞാനിവിടെ ഒരു പൂർണമായ രേഖാചിത്രം വരക്കുകയാണ് ഈ വശത്തായി z പൊസിഷനും ഈ കാണുന്ന ഭാഗത്തായി ഡിഫ്ലെക്ഷനും ഞാൻ രേഖപ്പെടുത്തുകയാണ് AFM പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന റോ ഡാറ്റകൾ ആധാരമാക്കി ഒരു കർവ് രൂപപ്പെടുത്താവുന്നതാണ് ഇതിൽ ചില ഭാഗങ്ങൾ ഞാൻ ഇപ്രകാരം അടയാളപ്പെടുത്തുകയാണ് A എന്ന ബിന്ദു പ്രതലത്തിൽ നിന്നും വളരെയധികം ദൂരത്തിലാണ് എന്നാൽ B എന്ന ബിന്ദു പ്രതലവുമായി സ്പർശനമുണ്ടാകുമ്പോൾ രൂപപ്പെടുന്നതാണ് B യിൽ നിന്നും C ലേക്കുള്ള ദൈർഘ്യത്തിനിടയിൽ നമ്മൾ സാംപിളിന്റെ പ്രതലത്തിൽ ഗണ്യമായ തോതിൽ രൂപാന്തരം ഉളവാക്കുകയാണ് ചെയ്യുന്നത് സാംപിളിൽ പ്രകടമാകുന്ന ഇൻഡന്റേഷന്റെ വ്യാപ്തിയും ടിപ്പുകളുടെ വ്യതിചലനവും നിർണ്ണയിക്കുന്നതിൽ പ്രതലത്തിന്റെ ആജ്ഞാനുവർത്തിത്വം അഥവാ ചെലുത്തപ്പെടുന്ന സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന്റെ തോതിന് ഗണ്യമായ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് വസ്തുത C എന്ന ബിന്ദുവിൽ എത്തിയിട്ടും പരമാവധി നിരക്കിൽ സാംപിളിനുമേൽ പ്രഹരമേല്പിക്കുന്നത് തുടർന്നാൽ ഒരു ഘട്ടമെത്തുമ്പോൾ ടിപ്പ് ഒടിഞ്ഞുപോകുന്നതായി നമുക്ക് കാണാനാകും ഇതിനെ നമ്മൾ സെറ്റ് പോയിന്റ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് മേല്പറഞ്ഞ സാഹചര്യത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിന്റെ പരമാവധി നിരക്കിനെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മേൽ സൂചിപ്പിക്കപ്പെട്ട പരിധിക്കപ്പുറം ടിപ്പിനെ നമ്മൾ ഉപരിതലത്തിൽ നിന്ന് പിൻവലിക്കേണ്ടതുണ്ട് C എന്ന ബിന്ദുവിൽ നിന്നും ഞാൻ ഇൻഡന്റേഷനെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് A ബിന്ദുവിൽ നിന്നും B യിലേക്കും ശേഷം C യിലേക്കും നമ്മൾ വരയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ C യിൽ നിന്നും വര മുകളിലേക്ക് ഉയരുന്നതായാണ് ദൃശ്യമാകുന്നത് C യിൽ നിന്നും CDE വരെയുള്ള ബിന്ദുക്കൾ മുകളിലേക്കും A മുതൽ B വരെയുള്ളവ താഴേക്കുമായാണ് നിലകൊള്ളുന്നത് ഇതിനെ നമ്മൾ ഇൻഡന്റേഷൻ സൈക്കിളെന്നാണ് അഭിസംബോധന ചെയ്യുന്നത് മേല്പറഞ്ഞ സൈക്കിളിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഇൻഡന്റും മറ്റൊന്ന് റിട്രാക്ടുമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കോശങ്ങളുടെ മെക്കാനിക്കലായ സവിശേഷതകളാണ് നിർണ്ണയിക്കേണ്ടത് എങ്കിൽ ABC എന്ന ഘടകത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാകും നമ്മുടെ കൈവശം റിട്രാക്ഷൻ ഡാറ്റ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രോട്ടീനുകൾ അൺ ഫോൾഡിങ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഉടലെടുക്കുന്ന എഡ്ഹെഷന്റെ നിരക്ക് നമുക്ക് വേഗത്തിൽ നിർണ്ണയിക്കാനാകും മറ്റ് പരീക്ഷണങ്ങളുടെ ഭാഗമായി ഇത്തരം ആവശ്യങ്ങൾ ഉയരുമ്പോൾ ഞാൻ മേല്പറഞ്ഞ നടപടിയാണ് സ്വീകരിക്കുന്നത് പ്രോട്ടീൻ അൺ ഫോൾഡിങിനെ കുറിച്ച് വിശദമായി പഠനം നടത്തുന്നതിനായി ഈ കാണുന്ന രീതിയിലുള്ള പ്രതലവും അതിന് മുകളിൽ നിലയുറപ്പിച്ച പ്രോട്ടീൻ തന്മാത്രകളും ഉണ്ടെന്ന് കരുതുക ഈ കാണുന്നതാണ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ടിപ്പ് പ്രോട്ടീൻ അൺ ഫോൾഡിങ് പ്രക്രിയകളെ കുറിച്ച് പഠനം നടത്തുന്നതിനായി വിരളമായ അളവിൽ മാത്രമാണ് നമ്മൾ സാംപിൾ ഉപയോഗപ്പെടുത്തുന്നത് ഇത് സാംപിളിൽ തീവ്രാഘാതവും കട്ടകുത്തലും തടയാൻ സഹായകമാകുന്നു ഇതിലൂടെ ഒരൊറ്റ തന്മാത്രയുടെ പരിധിയിൽ നിന്ന് കൊണ്ട് നമുക്ക് പ്രവർത്തനത്തിലേർപ്പെടാൻ സാധ്യമാകുന്നു എന്നതാണ് വസ്തുത വരും ക്ലാസ്സുകളിൽ എപ്രകാരമാണ് ഒരു ടിപ്പ് പ്രോട്ടീനിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം മേല്പറഞ്ഞത് പോലെ ഒരൊറ്റ തന്മാത്രയുടെ പരിധിയിൽ നിന്ന് കൊണ്ടാണ് ഞാൻ പ്രവർത്തനത്തിലേർപ്പെടുന്നത് എങ്കിൽ എന്റെ കൈവശം മിതമായ നിരക്കിൽ മാത്രമാണ് സ്പെസിമെൻ ഉള്ളതെന്ന് സാരം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ എങ്ങനെയാണ് ഒരു ടിപ്പിന് ഇത്രയും കുറവ് അളവിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനിനെ കണ്ടെടുക്കുവാൻ സാധിക്കുക രണ്ടാമത്തെ കാര്യമെന്തെന്നാൽ അൺ ഫോൾഡിങ് പരീക്ഷണങ്ങളുടെ മുഖമുദ്രയെന്താണ് പ്രോട്ടീനിനുള്ളിൽ കാണപ്പെടുന്ന വ്യക്തിഗത ഡൊമെയ്നുകളുടെ അൺ ഫോൾഡിങ് പ്രക്രിയയുടെ ചലനാത്മക സ്വഭാവവൈഭവങ്ങളെ പറ്റി വ്യക്തമായ ധാരണ എവിടെ നിന്നാണ് ലഭ്യമാകുക ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നത്